അസംബ്ലി ഡ്രോയിംഗ്തുടരുന്നു ഹലോ ഞാൻ ഗൌരവ് സിംഗ് ഈ കോഴ്സിലെ കോഴ്സ് ഇൻസ്ട്രക്ടർ പ്രൊഫസർ രാജാറാമിന്റെ ടീച്ചിംഗ് അസിസ്റ്റന്റാണ് ഞാൻ ഞാൻ ഖരഗ്പൂരിലെ ഐ ടിയിലെ മെക്കാനിക്കൽ വിഭാഗത്തിൽ ഗവേഷണ പണ്ഡിതനാണ് മുമ്പത്തെ പ്രഭാഷണ പരമ്പരയിൽ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾ ഇതിനകം പഠിച്ച ഭാഗങ്ങളുടെ അസംബ്ലിംഗ് പ്രക്രിയ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും സാധാരണയായി മെക്കാനിക്കൽ ഡിസൈനുകളിലും ഉൽപ്പന്ന അസംബ്ലിയിലും ഉപയോഗിക്കുന്ന വ്യക്തിഗത ഭാഗങ്ങൾ സംയോജിപ്പിക്കുന്നത് അസംബ്ലി പ്രക്രിയയിൽ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഈ കത്രിക കാണാം ഈ കത്രികയിൽ അഞ്ച് അടിസ്ഥാന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു ഇവിടെ രണ്ട് ഹാൻഡ്ഗ്രിപ്പുകൾ അടങ്ങിയിരിക്കുന്നു ബ്ലേഡുകളും പിവറ്റും ഉപയോഗിക്കാൻ എളുപ്പമാക്കുന്നു കൂട്ടിച്ചേർത്ത മറ്റൊരു മോഡൽ ഈ കാറ്റാടിയന്ത്രമാണ് പുനരുപയോഗ ഊർജ്ജത്തിന്റെ വളരെ പ്രചാരമുള്ള ഉറവിടമാണിത് ഈ സോളിഡ് വർക്കിലെ 12 ഡിസൈൻ ഭാഗങ്ങളിൽ നിന്നാണ് ഈ മോഡൽ നിർമ്മിച്ചിരിക്കുന്നത് ബ്ലേഡുകൾ സ്റ്റേറ്ററിലെ റോട്ടർ കേസിംഗ് പെഡൽ സ്റ്റാൻഡ് നിങ്ങൾക്ക് ബ്ലേഡുകൾ കാണാം മുഴുവൻ സജ്ജീകരണവും കാറ്റിന്റെ ദിശയിലൂടെ സഞ്ചരിക്കുന്നു മാത്രമല്ല വരുന്ന കാറ്റിന്റെ വേഗതയനുസരിച്ച് മോട്ടോർ കറങ്ങുന്നതും നമുക്ക് കാണാം ഘടകവുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന അത്തരം ഒന്നിലധികം അസംബ്ലി രീതികളുണ്ട് മറ്റൊന്ന് ഈ ട്രാക്ടർ പരിശോധിക്കുക ഈ ട്രാക്ടർ കൂട്ടിച്ചേർക്കുന്നതിന് ഒന്നിലധികം ഘടകങ്ങൾ പരസ്പരം ശേഖരിക്കേണ്ടതുണ്ട് അവയിൽ ഓരോന്നിനും പരസ്പരം ഒരു പ്രത്യേക ബന്ധം ഉണ്ടായിരിക്കും അതിനാൽ ഇതിൽ ധാരാളം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സോളിഡ് വർക്ക്സ് മോഡലിൽ ഈ ഭാഗങ്ങളുടെ എണ്ണവും ഓരോ ഭാഗവും പരസ്പരം ഒരു പ്രത്യേക ബന്ധവുമുണ്ട് അതിനാൽ സോളിഡ് വർക്ക്സിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ബന്ധങ്ങൾ അത്തരം എല്ലാ അസംബ്ലി ബന്ധങ്ങളെയും മേറ്റ് എന്ന ഉപകരണത്തിന് കീഴിൽ അവതരിപ്പിക്കുന്നു ഈ സെഷനിൽ ചില പ്രാഥമിക കൂടിചേരൽ രീതികൾ നമ്മൾ പഠിക്കും അതിനാൽ ഈ സോളിഡ് വർക്ക്സ് വിൻഡോയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ പ്രമാണം തുറക്കും മുമ്പ് നിങ്ങൾ ഈ ഭാഗം വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ അസംബ്ലി തിരഞ്ഞെടുക്കും ഞങ്ങൾ ശരി ക്ലിക്കുചെയ്യും കൂടാതെ നിങ്ങൾ അസംബ്ലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ അസംബ്ലി വിൻഡോ യാന്ത്രികമായി ആവശ്യപ്പെടും നിങ്ങൾ ഒരു ഭാഗം തിരഞ്ഞെടുക്കുകയാണെന്ന് കരുതുക ഇത് ഒരു ബ്ലോക്കാണ് ഇത് ഇപ്പോൾ തിരഞ്ഞെടുത്തു സ്ക്രീനിൽ എവിടെയെങ്കിലും ക്ലിക്കുചെയ്യുന്നത് നിങ്ങൾ ഈ ബ്ലോക്കിനെ ഒരു സ്ഥിര സ്ഥാനമായി സ്ഥാപിക്കും അസംബ്ലിയുടെ പ്രകടന ആവശ്യത്തിനായി നിങ്ങൾക്ക് മറ്റൊരു ഭാഗം ആവശ്യമാണ് അതിനാൽ ഈ അസംബ്ലിയിൽ മറ്റൊരു ഭാഗം ഉൾപ്പെടുത്തുന്നതിന് നിങ്ങൾ വലത് മുകളിലെ മൂലയിൽ ഘടകം ചേർക്കാൻ പോകും മറ്റൊരു ഭാഗം തുറക്കാൻ നിങ്ങൾ ആവശ്യപ്പെടും നിങ്ങൾ മറ്റൊരു ഭാഗം തിരഞ്ഞെടുക്കും തുറക്കാനായി ക്ലിക്ക് ചെയ്യുക മുമ്പത്തെ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് എവിടെയും സ്ഥാപിക്കാവുന്ന രണ്ടാം ഭാഗമാണിത് നിങ്ങൾ അത് ഇവിടെ സ്ഥാപിക്കുമെന്ന് കരുതുക ഇവിടെ മറയ്ക്കുക അല്ലെങ്കിൽ കാണിക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക ഓരോ ഇനങ്ങളുടെയും ഉത്ഭവം ഇവിടെ കാണാം അതിനാൽ ഈ ബ്ലോക്കിന്റെ ഉത്ഭവസ്ഥാനം ബ്ലോക്ക് എയുടെ ഉത്ഭവം തന്നെയാണ് പൂർണ്ണ അസംബ്ലിയുടെ ഉത്ഭവം ഈ ബ്ലോക്ക് തിരഞ്ഞെടുക്കുന്നത് പ്രതലത്തിൽ എവിടെയും നീക്കാൻ നിങ്ങളെ അനുവദിക്കുന്നുവെന്ന് ഇവിടെ പരിശോധിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നിരുന്നാലും ഈ ബ്ലോക്ക് നീക്കാൻ കഴിയില്ല അത് ശരിയാക്കി ഇതിന് കാരണം നിങ്ങൾ ആദ്യമായി ഈ ബ്ലോക്ക് ഇറക്കുമതി ചെയ്തതിനാലാണ് ഇത് ഈ ബ്ലോക്കിനെ സ്ഥാനത്ത് ഉറപ്പിക്കുന്നത് അതിനാൽ ഈ മറ്റ് അസംബ്ലി ഭാഗത്തിന് ഒരു റഫറൻസ് ഉണ്ടായിരിക്കാം അതിനാൽ നമുക്ക് ഇത് മാറ്റാൻ കഴിയും എന്നിരുന്നാലും നിങ്ങൾ ഇത് വലത് ക്ലിക്കുചെയ്ത് ഫ്ലോട്ട് തിരഞ്ഞെടുക്കുക അതിനാൽ ഇത് ചലിക്കുന്നതായിരിക്കും അത് പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പരിഹരിക്കാനാകും അതിനാൽ ഇത് അതിന്റെ സ്ഥാനത്ത് ഉറപ്പിക്കുകയും ഇത് ഫ്ലോട്ടിംഗ് ആക്കുകയും ചെയ്യാം അതിനാൽ ഇപ്പോൾ സോളിഡ് വർക്ക്സിൽ ലഭ്യമായ നിരവധി കൂട്ടിച്ചേർക്കൽ രീതികൾ നമ്മൾ കാണേണ്ടി വരും ആദ്യത്തേത് ഇവിടെ ഒരു ബന്ധം നടത്തുക എന്നതാണ് നിങ്ങൾ മേറ്റ് ക്ലിക്കുചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് മേറ്റ് വിപുലമായ മേറ്റ് മെക്കാനിക്കൽ മേറ്റ് എന്നിവ കാണാൻ കഴിയും അതിനാൽ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് മേറ്റ് പരിശോധിക്കാം ഇതിൽ ആദ്യത്തേത് കോയിൻസിഡന്റ് മേറ്റ് ആണ് പരസ്പരം യോജിക്കാൻ നമുക്ക് രണ്ട് പ്രതലങ്ങളിൽ ഏതെങ്കിലും രണ്ട് അരികുകളോ രണ്ട് മുഖങ്ങളോ വെർട്ടീസുകളോ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഈ അരികും ആ അരികും തിരഞ്ഞെടുക്കും ഇത് പരസ്പരം യോജിക്കുന്നു നിങ്ങൾ ശരി ടിക്കുചെയ്യുകയാണെങ്കിൽ ഈ ടിക് മാർക്ക് ഇത് ഈ സ്ഥാനം ശരിയാക്കുകയും പരസ്പരം അരികുകൾ വിന്യസിക്കുകയും ചെയ്യുന്നു ഇത് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ഇതും തിരിക്കാൻ കഴിയും എന്നാൽ ഈ രണ്ടിന്റെയും അരികുകൾ എല്ലായ്പ്പോഴും ശരിയാണെന്ന് നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ കഴിയും അതിനാൽ ഇത് യാദൃശ്ചിക മേറ്റ് ആണ് മേറ്റ് ക്ലിക്കുചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്തിടെ ചെയ്ത മേറ്റ് ഈ വിഭാഗത്തിൽ പട്ടികപ്പെടുത്താം ഇതാണ് നമ്മുടെ സമ്മേളനം ഇത് ബ്ലോക്ക് എ യുടെ വിശദാംശങ്ങൾ തടയുന്നു ഇത് ബ്ലോക്ക് ബി യുടെ വിശദാംശങ്ങളാണ് ഈ രണ്ട് അസംബ്ലികളുടെ കൂട്ടിച്ചേർക്കലാണിത് അതിനാൽ നമുക്ക് ഇത് എഡിറ്റുചെയ്യേണ്ടിവന്നാൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് തിരഞ്ഞെടുക്കാനും ഈ ആദ്യ ഓപ്ഷൻ എഡിറ്റ് സവിശേഷത നമുക്ക് ഇവിടെ എഡിറ്റുചെയ്യാനും കഴിയും കൂടാതെ ഈ മേറ്റ് നമുക്ക് ഇല്ലാതാക്കാനും കഴിയും ഇത് മേറ്റ് ലേക്ക് പോകുമെന്ന് വീണ്ടും കാണാം ഈ ചെറിയ നീല ടാബ് ഇത് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ മുഖത്തോട് ഈ മുഖം പറയുക നിങ്ങൾ ശരി ക്ലിക്കുചെയ്യും ഇവ രണ്ടും പരസ്പരം വിന്യസിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം അതിനാൽ അടുത്ത തരത്തിലുള്ള മേറ്റ് ലേക്ക് നമുക്ക് പോകാം അതായത് സമാന്തര മേറ്റ് പട്ടികയിൽ ഇവിടെ കാണും ഒരു സമാന്തര മേറ്റ് നൊപ്പംനമ്മുക്ക് രണ്ട് പ്രതലങ്ങൾ ആവശ്യമാണ് അല്ലെങ്കിൽ പരസ്പരം സമാന്തരമായി വെർട്ടെക്സ് നിർമ്മിക്കാൻ കഴിയും അതായത് നിങ്ങൾ ഈ പ്രത്യേക മുഖം തിരഞ്ഞെടുത്ത് ഈ പ്രത്യേക മുഖം പറയും കൂടാതെ ഇവിടെ ക്ലിക്കുചെയ്യുകയും മിനി ടൂൾബാറിൽ ശരി ക്ലിക്കുചെയ്യാം ഈ രണ്ട് മുഖങ്ങളും എല്ലായ്പ്പോഴും പരസ്പരം സമാന്തരമായി നിങ്ങൾക്ക് കാണാം അതുപോലെ നമുക്ക് ലംബ മേറ്റ് ലും പ്രവർത്തിക്കാം അതിനാൽ ഇത്തരത്തിലുള്ള മേറ്റ് ചെയ്യുന്നതിന് മറ്റൊരു കുറുക്കുവഴി രീതി ഉണ്ട് നമുക്ക് രണ്ട് മുഖങ്ങളും അല്ലെങ്കിൽ കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്ന വെർട്ടീസുകളും നേരിട്ട് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇവ രണ്ടും തിരഞ്ഞെടുത്ത് മുഖം ഏതാണെന്ന് പറയാൻ കഴിയും ഇപ്പോൾ ഇവ രണ്ടും 1 ആയി തിരഞ്ഞെടുത്ത നിയന്ത്രണം നിങ്ങൾക്ക് ഉണ്ട് ഇപ്പോൾ നമുക്ക് മേറ്റ് ലേക്ക് പോകാം ഇത് ഇവയിലേതെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകും നിങ്ങൾ ലംബമായി പോയി ശരി ക്ലിക്കുചെയ്യുക അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത രണ്ട് മുഖങ്ങളും ഇപ്പോൾ പരസ്പരം ലംബമാണ് അതിനാൽ ഈ കോർഡിനേറ്റ് പ്രതലത്തിൽ നിങ്ങൾ എവിടെ പോയാലും അവ ബന്ധത്തിൽ ലംബമായി തുടരും അതിനാൽ കൂട്ടിച്ചേർക്കൽ ചരിത്രത്തിൽ ഈ രണ്ട് പ്രതലങ്ങളും പരസ്പരം സമാന്തരമായിരിക്കുന്നതും ഈ രണ്ട് പ്രതലങ്ങളും പരസ്പരം ലംബമായിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും നമുക്ക് അവ ഓരോന്നായി ഇല്ലാതാക്കാനും കഴിയും ഇപ്പോൾ ടാൻജെന്റ് മേറ്റ് അടുത്തത് നിങ്ങൾ കാണും അതിനാൽ ഒരു മേറ്റ് നമുക്ക് കുറച്ച് വളഞ്ഞ ജ്യാമിതി ആവശ്യമാണ് അതിനാൽ ഈ ഭാഗങ്ങൾ ഇതിനകം നീക്കംചെയ്യേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ ചില വളഞ്ഞ ജ്യാമിതി ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട് ഈ ഭാഗങ്ങൾ നീക്കംചെയ്യുന്നതിന് നമുക്ക് ഈ ഭാഗം നേരിട്ട് തിരഞ്ഞെടുക്കാനാകും അത് പൂർണ്ണമായ ബ്ലോക്ക് തിരഞ്ഞെടുക്കുകയും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് ചെയ്യാം ഒകെ സെലക്ട് ചെയ്യുക ബ്ലോക്ക് ബി യ്ക്കായി നിങ്ങൾ ബി തിരഞ്ഞെടുക്കും നമുക്ക് നേരിട്ട് ഡിലീറ്റ് ചെയ്യാം അതിനാൽ ഇപ്പോൾ ഒരു പുതിയ ജ്യാമിതി ഇറക്കുമതി ചെയ്യുന്നതിന് നിങ്ങൾ ഘടകം ചേർക്കാൻ പോകും കർവ് ഉള്ള ചില ജ്യാമിതീയ വൃത്താകൃതിയിലുള്ള ജ്യാമിതി അല്ലെങ്കിൽ ജ്യാമിതി നിങ്ങൾ തിരഞ്ഞെടുക്കും പിൻ സ്ലോട്ട് ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കും ജ്യാമിതി ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ഈ കാഴ്ച ഉറവിടങ്ങൾ നിങ്ങൾ സജീവമാക്കിയിരിക്കുമ്പോൾ പ്ലെയിൻ ജ്യാമിതി തലം ഉത്ഭവത്തിൽ ഇറക്കുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഘടകങ്ങൾ ചേർക്കാൻ പോകും ഇപ്പോൾ ഒരു പിൻ സ്ലോട്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ കാണും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ജ്യാമിതി ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് പ്രതലത്തിൽ എവിടെയും നീങ്ങാൻ കഴിയും കൂടാതെ ഒരു വ്യൂ ഉറവിടത്തിന്റെ ഈ ഫീച്ചേഴ്സ് നിങ്ങൾ സജീവമാക്കിയിരിക്കുമ്പോൾ ഭാഗങ്ങളുടെയും അസംബ്ലിയുടെയും ഉത്ഭവം നമുക്ക് കാണാൻ കഴിയും പരസ്പരം അടുത്ത് വരുമ്പോൾ നമുക്ക് അവ രണ്ടും പരസ്പരം യോജിപ്പിക്കാം അതിനാൽ ഇത് ഭാഗം 2 ആണ് ഇതാണ് സ്ലോട്ട് ഈ സ്ലോട്ടിനുള്ളിൽ നീക്കാൻ കഴിയുന്ന ഈ പിൻ ഈ സ്ലോട്ടിനുള്ളിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ ഒരു സൂക്ഷ്മ വിശകലനം നടത്തുകയാണെങ്കിൽ ഈ ഉപരിതലം ജ്യാമിതീയമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു സിലിണ്ടർ ഉപരിതലമാണ് അത് ക്രോസ് സെക്ഷനിൽ ഒരു വൃത്തമുണ്ട് ഇത് ഒരു പാതയാണ് അതിനാൽ ഈ സ്ലോട്ടിലേക്ക് നീങ്ങാൻ അനുവദിക്കുന്നതിന് ഈ പ്രത്യേക സ്ലോട്ട് പാത്ത് ഈ വൃത്താകൃതിയിലുള്ള സിലിണ്ടറിൽ സ്പർശിക്കുന്നതായിരിക്കണം അതിനാൽ ഈ ടാൻജെന്റ് മേറ്റ് പ്രദർശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഉപരിതലവും നിയന്ത്രണം പിടിച്ചിരിക്കുന്ന ഈ സ്ലോട്ട് പാതയും തിരഞ്ഞെടുത്ത് മേറ്റ് ൽ ക്ലിക്കുചെയ്യുക അതിനാൽ നിങ്ങൾ ഇവിടെ ടാൻജെന്റ് തിരഞ്ഞെടുത്ത് ശരി ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ സ്ലോട്ട് ഉപരിതലം ഈ സിലിണ്ടർ ഉപരിതലത്തോട് സ്പർശിക്കുന്ന രീതിയിൽ രണ്ട് ഘടകങ്ങൾ കൂട്ടിച്ചേർത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നീങ്ങുന്നത് കാണാം നിങ്ങൾ ഇതിനകം പറഞ്ഞതുപോലെ നിങ്ങൾ കൊണ്ടുവരുന്ന ആദ്യ ഇനം ശരിയാക്കി രണ്ടാമത്തെ ഇനം നീക്കാൻ കഴിയും അതിനാൽ ഈ പച്ച സ്ലോട്ട് നീങ്ങുന്നു എന്നിരുന്നാലും ഈ പിൻ ശരിയാക്കി അല്ലാത്തപക്ഷം നമുക്ക് അത് ചെയ്യാൻ കഴിയും നമുക്ക് ഈ പിനിൽ വലത് ക്ലിക്കുചെയ്യാം നിങ്ങൾ അത് ഫ്ലോട്ട് ആക്കുകയും സ്ലോട്ടിൽ വലത് ക്ലിക്കുചെയ്യുകയും നിങ്ങൾ അത് ശരിയാക്കുകയും ചെയ്യും അതിനാൽ ഈ സ്ലോട്ട് സ്ഥിരമായിരിക്കുമ്പോൾ തന്നെ ഈ പിൻ നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ഇവ രണ്ടും തമ്മിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരേയൊരു ബന്ധം ടാൻജെന്റ് റിലേഷൻ മാത്രമാണ് അതിനാൽ ഈ പ്രതലം മറ്റ് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ പ്രതലം ഈ സ്ലോട്ടിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ മറ്റ് ചില റീലഷൻസ് നിങ്ങൾ നടത്തേണ്ടതുണ്ട് ഇത് ചെയ്യുന്നതിന് സ്ലോട്ടിന്റെ തലം ഈ പിൻ തലം എന്നിവ പരസ്പരം യോജിപ്പിച്ച് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തുചെയ്യും പിൻ സ്ലോട്ടിൽ മാത്രം തുടരുമെന്ന് അത് ഉറപ്പാക്കും അതിനാൽ നമുക്ക് ഇവിടെ പിൻ വിശദാംശങ്ങൾ ഉണ്ടെന്നും ഇവിടെ സ്ലോട്ടിന്റെ വിശദാംശങ്ങൾ കാണാമെന്നും കാണാം ഈ പിന്നിന്റെ മുകളിലുള്ള തലം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം നിങ്ങൾ സ്ലോട്ടിന്റെ മുകളിലെ തലം തിരഞ്ഞെടുക്കുകയും കണ്ട്രോൾ ബട്ടൺ അമര്തിപിടിച്ചുകൊണ്ടു അവ രണ്ടിന്റെയും മുകളിലെ പ്രതലങ്ങൾ സെലക്റ്റ് ചെയ്തുകൊണ്ട് മേറ്റ് ൽ ക്ലിക്കുചെയ്ത് കോയിൻസിഡന്റ് മേറ്റ് തിരന്നെടുക്കും അതിനാൽ ഇപ്പോൾ അത് കേന്ദ്രത്തിൽ തന്നെ തുടരുന്നു അത് സ്ലോട്ടിനുള്ളിൽ നീങ്ങാൻ സ്വാതന്ത്ര്യമുണ്ട് കൂടാതെ മറ്റ് സ്വാതന്ത്ര്യത്തിന്റെ അളവുകൾ ഇപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇത് പരസ്പരം നീങ്ങാൻ കഴിയില്ല അതിനാൽ ഇപ്പോൾ ഇത് സ്ലോട്ടിനുള്ളിലെ നല്ലതും മികച്ചതുമായ നീക്കങ്ങളാണ് അതിനാൽ ഈ മേറ്റ് ന്റെ പ്രകടനമായിരുന്നു ഇത് അടുത്ത തരത്തിലുള്ള മേറ്റ് നമുക്ക് ഇവിടെ കോൺസെൻട്രിക് മേറ്റ് നെ കാണാൻ കഴിയും കോൺസെൻട്രിക് മേറ്റ് നായി മറ്റ് ചില ജ്യാമിതി ഇറക്കുമതി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പുതിയ പ്രമാണ അസംബ്ലി തുറക്കുക നമ്മൾ ഒരു ബോൾട്ടും നട്ടും ഇറക്കുമതി ചെയ്യും അവബോധത്താൽ ബോൾട്ടും നട്ടും തമ്മിലുള്ള ബന്ധം പരസ്പരം കേന്ദ്രീകൃതമായിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ മേറ്റ് ലേക്ക് പോയി കോൺസെൻട്രിക്കലി സെലക്ട്ചെയ്യുന്നു അതിനാൽ രണ്ടും പരസ്പരം കേന്ദ്രീകരിക്കേണ്ട രണ്ട് സർക്കിളുകൾ എടുക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ പ്രത്യേക എഡ്ജും ഈ എഡ്ജും തിരഞ്ഞെടുക്കുകയും ഈ മിനി ടൂൾബാറിൽ ശരി ക്ലിക്കുചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഇത് പരസ്പരം കേന്ദ്രീകൃതമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഇത്തരത്തിലുള്ള കൂടിച്ചേരൽ കോൺസെൻട്രിക് മേറ്റ് എന്ന് വിളിക്കുന്നു നമുക്ക് ഇവിടെ കാണാം ഇതിന്റെ തുടർച്ചയായി നമുക്ക് ഈ രണ്ട് നട്ടും ബോൾട്ടും ഒരു ബന്ധത്തിൽ കൂട്ടിച്ചേർക്കണം അതിന് ത്രെഡുകൾ ഉള്ളതിനാൽ അത് പരസ്പരം ഉരുട്ടി ഈ ത്രെഡ് ഓരോന്നായി അനാവരണം ചെയ്യണം അതിനാൽ ഇത്തരത്തിലുള്ളവ മേറ്റ് ചെയ്യാൻ കഴിയുമോ ഇവ മെക്കാനിക്കൽ മേറ്റ് ന്റെ കീഴിലാണ് നിങ്ങൾ മേറ്റ് ന്റെ അടുത്തേക്ക് പോകും ഈ സ്റ്റാൻഡേർഡ് ഇണകളെ നിങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കി ഇപ്പോൾ ഈ മെക്കാനിക്കൽ മേറ്റ് ഉണ്ട് നിങ്ങൾ ഈ സ്ക്രീൻ തിരഞ്ഞെടുക്കും ഇതിനായുള്ള ഈ മേറ്റ് ന്റെ തിരഞ്ഞെടുപ്പിന് സ്ക്രൂവിന് ഈ രണ്ട് നട്ട്സും ബോൾട്ടും വിന്യസിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾ ഈ ദൃശ്യപരത മറച്ചുവെച്ച് കാണിക്കും നിങ്ങൾ ഈ കാഴ്ച ആക്സിസ് തിരഞ്ഞെടുക്കും ഇവ രണ്ടിന്റെയും ആക്സിസ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ സ്ക്രൂ മേറ്റ് ഡയലോഗ് ബോക്സിൽ ബോൾട്ടിന്റെ ഈ അക്ഷവും വിന്യസിക്കേണ്ട ഈ നട്ടിന്റെ അക്ഷവും തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ കാണും ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്ന മറ്റൊരു ഓപ്ഷൻ ഈ നട്ട് മുറുക്കിക്കൊണ്ടോ ഡിസ്റ്റൻസ് പെർ റിവൊല്യൂഷൻ നല്കിക്കൊണ്ടോ നമുക്ക് ഈ സ്ക്രീവിന്റെ റിവൊല്യൂഷൻ പെർ മിനിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഒരു റിവൊല്യൂഷന് 10 അല്ലെങ്കിൽ 5 മില്ലീമീറ്റർ എന്ന് പറയാം ഒകെ ക്ലിക്കുചെയ്യുക അതിനാൽ ഈ നട്ട് പരിണമിക്കുമ്പോൾ നമ്മൾ ഇത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത് മുന്നോട്ട് നീങ്ങുന്നതോ പുറത്തേക്ക് തുറക്കുന്നതോ കാണാം അതിനാൽ ഓരോ റിവൊല്യൂഷനും ഇത് 5 മില്ലീമീറ്റർ മുന്നോട്ട് നീങ്ങുന്നു അതിനാൽ ഇപ്പോൾ ഇത് ബോൾട്ടിലേക്ക് പ്രവേശിക്കുന്നു നട്ട് ബോൾട്ടിലേക്ക് കറങ്ങുമ്പോൾ ത്രെഡുകൾ ഓരോന്നായി അനാവരണം ചെയ്യുന്നത് നമുക്ക് കാണാം അസംബ്ലികളിൽ പതിവായി ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ മേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണിത് ഈ ദിശ തിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ബോൾട്ടിൽ നിന്ന് നട്ട് തുറക്കുന്നു അതിനാൽ നിങ്ങൾ പ്രവർത്തിച്ച സ്ക്രൂ കൂടിച്ചേരുന്നതാണ് ഞങ്ങൾ ജോലിചെയ്യുന്ന മറ്റൊരു മെക്കാനിക്കൽ മേറ്റ് ഹിഞ്ച് മേറ്റ് ഇതിനായി നിങ്ങൾക്ക് മറ്റ് ചില ജ്യാമിതി ആവശ്യമാണ് ഈ നട്ടും ബോൾട്ടും കിങ്ങ്ൾ ഇല്ലാതാക്കും നിങ്ങൾ ഘടകങ്ങൾ തിരുകും ഇത് വിൻഡോകളിലും വാതിലുകളിലും പൊതുവായി ഉപയോഗിക്കുന്ന വളരെ സാധാരണമായ ഒരു പ്രധാന ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ കഴിയും അതിനാൽ ആദ്യത്തെ പ്രൈമ ഫെയ്സി ഉപയോഗിച്ച് ഈ രണ്ട് ഭാഗങ്ങൾ ഇവിടെ ശരിയാക്കേണ്ടതുണ്ടെന്നും ഈ നട്ട് അവയുടെ പരിഹാരം ഉറപ്പാക്കുമെന്നും നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള മേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇത് ആവശ്യമാണ് കാരണം ഇവ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട് മേറ്റ് ന്റെയും മെക്കാനിക്കൽ മേറ്റ് ന്റെയും കീഴിൽ ലഭ്യമായ ഹിഞ്ച് മേറ്റ് ന്റെ നിങ്ങൾ തിരഞ്ഞെടുക്കും നിങ്ങൾ ഹിഞ്ച് തിരഞ്ഞെടുക്കും അതിനാൽ ഇപ്പോൾ ഹിംഗിന് കീഴിൽ കേന്ദ്രീകൃത തിരഞ്ഞെടുപ്പും യാദൃശ്ചിക തിരഞ്ഞെടുക്കലുകളും ഉള്ള രണ്ട് ചെറിയ വിൻഡോകൾ തിരഞ്ഞെടുക്കാൻ ഇത് നൽകുന്നു ഏകാഗ്രമായ തിരഞ്ഞെടുപ്പിനായി ഈ മുഖത്തെ ഏകാഗ്രമായി വിന്യസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒപ്പം യാദൃശ്ചികമായിരിക്കേണ്ട മുഖങ്ങളും ഈ മുഖവും ഈ മുഖവുമാണ് അതിനാൽ ഇപ്പോൾ ഇത് മുഖങ്ങളും കേന്ദ്രീകൃത ആന്തരിക ഉപരിതലങ്ങളും സ്വപ്രേരിതമായി കണ്ടെത്തിയതായും ഇത് രണ്ടും വിന്യസിച്ചതായും നമുക്ക് കാണാം ആംഗിൾ പരിധികൾ വ്യക്തമാക്കാനും ഈ ഹിഞ്ച് മേറ്റ് അനുവദിക്കുന്നു തുടർന്ന് ഈ ഡയലോഗ് ബോക്സ് തുറക്കുന്നതിന് ഇവിടെ ഒരു ടിക്ക് മാർക്ക് പരിശോധിക്കാം അതിനാൽ ആദ്യത്തെ വിൻഡോ രണ്ട് പ്രതലങ്ങൾ ആവശ്യപ്പെടുന്നു അവയ്ക്ക് കോണുകൾ വ്യക്തമാക്കേണ്ടതുണ്ട് നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കും കൂടാതെ ഈ പ്രതലം തമ്മിൽ ആംഗിൾ ആവശ്യമുള്ള രണ്ട് പ്രതലങ്ങളും അതിനാൽ നിങ്ങൾ ഈ നിലവിലെ ആംഗിൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ കോൺ ഇത് 70 ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇത് 70 ഡിഗ്രി വരെ നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ നിങ്ങൾ ഇത് ഇപ്പോൾ 0 ആയി സൂക്ഷിക്കും ഈ കോണിന് പോകാൻ കഴിയുന്ന പരമാവധി പരിധി ഇതാണ് നമുക്ക് ഇത് 100 എന്ന് 78 ആക്കാം ഈ മിനിമം മൂല്യത്തിന് ഇത് മൈനസ് 70 ലേക്ക് പോകാം ശരി ക്ലിക്കുചെയ്യും അതിനാൽ ഇപ്പോൾ ഈ ഹിഞ്ച് മേറ്റ് പൂർത്തിയായി നിങ്ങൾക്ക് ആംഗിൾ പരിധികൾ പരിശോധിക്കാൻ കഴിയും ഇത് നീങ്ങുന്നു ഇത് 170 ഡിഗ്രി 178 ഡിഗ്രി നെഗറ്റീവ് ദിശയിൽ ഇത് മൈനസ് 70 ഡിഗ്രി പരമാവധി മൂല്യവും ഈ മിനിമം മൂല്യവും അതിനാൽ ഇത് പൂർത്തിയാക്കുന്നതിന് ഒരു മേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ നട്ടും ഈ ഹിഞ്ച് തിരഞ്ഞെടുക്കലും അതിനാൽ ഇത് ഏകാഗ്ര മേറ്റ് ആയിരിക്കുമെന്ന് നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും ഇത് ചെയ്യുന്നതിന് നിങ്ങൾ ഈ മുഖം തിരഞ്ഞെടുക്കുകയും നിയന്ത്രണം തിരഞ്ഞെടുക്കുകയും ചെയ്യും ഈ മുഖം തിരഞ്ഞെടുക്കുക നിങ്ങൾ അടയാളപ്പെടുത്തും നമ്മൾ മേറ്റിലേക്കു പോകും ഇത് ഇതിനകം തന്നെ ഈ കോൺസെൻട്രിക് റിലേഷൻ കണ്ടെത്തി ശരി ക്ലിക്കുചെയ്യും എന്നിരുന്നാലും ഇതാണ് സ്വാതന്ത്രത്തോടെ നീങ്ങാനള്ള ദിശ ഇതും ഇതും പരസ്പരം അഭിമുഖീകരിക്കുന്ന കൂട്ടിച്ചേർക്കൽ വഴി നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയും നിങ്ങൾ ശരി ക്ലിക്കുചെയ്യും അതിനാൽ ഇപ്പോൾ ഈ ഹിംഗിന്റെ പൂർണ്ണ മോഡലാണിത് അതിനാൽ ഈ മേറ്റ് നിങ്ങൾ ഇവിടെ കണ്ടു അതിനാൽ അസംബ്ലിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വിവിധതരം പ്രാഥമിക കൂട്ടിച്ചേർക്കുന്ന രീതികൾ നിങ്ങൾ കണ്ടു അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ പോകും ഈ അസംബ്ലികളെല്ലാം സിംഗിൾ സിലിണ്ടർ പിസ്റ്റൺ അസംബ്ലി ആയ ഒരു പൂർണ്ണ അസംബ്ലി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കും ആ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ കാണും കൂടാതെ നിങ്ങൾ പൂർണ്ണ അസംബ്ലിയിൽ പ്രയോഗിക്കുകയും ചെയ്യും